ഹായ് ഈ പ്രത്യേക മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ നമ്മൾ മറ്റൊരു തരം ഓസിലേറ്റർ കാണും അവയെ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓസിലേറ്ററുകൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ അവയെ യുജെടി ഓസിലേറ്ററുകൾ എന്നും വിളിക്കുന്നു രണ്ടും ശരിയാണ് അതിനാൽ യുജെടി ഓസിലേറ്ററുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററുകൾ എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മൾക്ക് യുജെടി ഓസിലേറ്ററുകൾ ഉപയോഗിക്കേണ്ടിവന്നത് നേരത്തെ നമ്മൾ വ്യത്യസ്ത തരം ഓസിലേറ്ററുകൾ കണ്ടു ശരി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഫേസ് ഷിഫ്റ്റ് വെയ്ൻ ബ്രിഡ്ജ് എൽസി എന്നിവയിൽ നിന്ന് ആരംഭിക്കുന്ന വ്യത്യസ്ത തരം ഓസിലേറ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് എൽസിയെ ടാങ്ക് സർക്യൂട്ട് എന്നും വിളിക്കുന്നത് ടാങ്ക് സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു ഹാർട്ട്ലി നിർമ്മിച്ചു നമ്മൾ കോൾപിറ്റ്സ് ഓസിലേറ്റർ നിർമ്മിച്ചു തുടർന്ന് ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ കണ്ടു അതിനാൽ യുജെടി ഒരു ഓസിലേറ്ററായി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം ഡയോഡുകൾ പോലെ യൂണി പി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററുകൾ പ്രത്യേക പി തരം എൻ തരം അർദ്ധചാലക വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും മനസ്സിലാക്കാൻ നമുക്ക് സ്ലൈഡ് കാണേണ്ടതുണ്ട് അതിനാൽ യുജെടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ മനസിലാക്കണം അതിന്റെ പേര് യൂണി ജംഗ്ഷൻ എന്നാണു അതിനാൽ ഒരൊറ്റ പിഎൻ ജംഗ്ഷനിൽ നിന്ന് പ്രത്യേക പി എൻ തരം അർദ്ധചാലക വസ്തുക്കളിൽ നിന്നാണ് യൂണിജംഗ്ഷൻ ട്രാൻസിസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നു പ്രധാന ചാലക എൻ ചാനലിനുള്ളിൽ ഈ പി ഉണ്ട് അതിനാലാണ് ഇത് ഒരു പിഎൻ ജംഗ്ഷൻ രൂപപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാമോ എനിക്ക് ഡോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഒരു എൻ ടൈപ്പ് അർദ്ധചാലകമുണ്ടെങ്കിൽ അതിൽ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പ്രോസസ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമ്മൾക്ക് എൻ ടൈപ്പ് സബ്സ്ട്രേറ്റിൽ പി ടൈപ്പ് മെറ്റീരിയൽ ആവശ്യമാണ് ഇതാണ് നമ്മൾക്ക് വേണ്ടത് നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഒരു സിലിക്കൺ എടുക്കും ഇത് എല്ലാവരും ഇപ്പോൾ അറിയണം നമ്മൾ ഓക്സൈഡ് വളർത്തുന്നു ഇതാണ് നമ്മളുടെ ഓക്സൈഡ് പിന്നെ നമ്മൾ എന്തുചെയ്യും അടുത്ത ഘട്ടം നമ്മൾക്ക് ഒരു ജാലകം തുറക്കേണ്ടതുണ്ട് അതിനർത്ഥം നമ്മൾ കോട്ട് ഫോട്ടോറെസിസ്റ്റ് സ്പിൻ ചെയ്യുമെന്നാണ് ഈ സ്പിൻ കോട്ട് ഫോട്ടോറെസിസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം അതിനാൽ ഞാൻ ഇതുപോലുള്ള ഫോട്ടോറെസിസ്റ്റ് ഇടട്ടെ ഇപ്പോൾ അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം നമ്മൾ ഇത് നിർമ്മിക്കും ഇത് ഫോട്ടോറിസ്റ്റ് ആണ് ഇതാണ് SiO2 ഇത് സിലിക്കൺ ഇത് സി സിലിക്കൺ ഡൈ ഓക്സൈഡ് എൽപിസിവിഡി ഉപയോഗിച്ച് നമുക്ക് സിലിക്കൺ ഡൈ ഓക്സൈഡ് വളർത്താം ഇപ്പോൾ നമുക്കറിയാവുന്ന സ്പിൻ കോട്ടിംഗിന് ശേഷം കോട്ടിംഗ് സ്പിൻ കോട്ടുചെയ്ത ഫോട്ടോറെസിസ്റ്റ് ഉണ്ട് ഇത് സോഫ്റ്റ് ബേക്ക് ചെയ്യാനുള്ള സമയമാണ് സിലിക്കൺ ഉപയോഗിക്കുമ്പോഴെല്ലാം അത് വൃത്തിയാക്കേണ്ടതുണ്ടെന്ന് നമുക്കറിയാം അതിനാൽ 90 ഡിഗ്രി സെന്റിഗ്രേഡ്ൾ ഹോട്ട് പ്ലേറ്റിൽ 1 മിനിറ്റ് ചൂടാക്കുന്നു തുടർന്ന് നമ്മൾ മാസ്ക് ലോഡ് ചെയ്യുന്നു അതിനാൽ ഞാൻ മാസ്ക് ലോഡുചെയ്യുന്നു എന്റെ മാസ്ക് എങ്ങനെ കാണപ്പെടും എന്റെ മാസ്ക് ഇതുപോലെ കാണപ്പെടും ഇത് ഒരു ശോഭയുള്ള ഫീൽഡ് മാസ്കാണ് എന്റെ ഫോട്ടോറെസിസ്റ്റ് പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റാണ് നമ്മൾ അത് പല തവണ കണ്ടു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയണം എന്നിട്ടും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ നിങ്ങൾക്കു എന്നോട് ഫോറത്തിൽ ചോദിക്കാം പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റ് എന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ട അതിനാൽ ഇപ്പോൾ നമ്മൾ മൃദുവായി ചുട്ടുപഴുപ്പിച്ച ഫോട്ടോറെസിസ്റ്റിൽ മാസ്ക് ലോഡുചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്തുചെയ്യും അതിനുശേഷം നിങ്ങൾ യുവി ഉപയോഗിച്ചുള്ള വേഫർ തുറന്നുകാട്ടും ശരിയാണ് അപ്പോൾ യുവി ഉപയോഗിച്ചുള്ള വേഫർ തുറന്നുകാണിക്കുമ്പോൾ അത് ഒരു പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റാണ് എന്താണ് സംഭവിക്കുക ഈ പ്രദേശം കേടുകൂടാതെയിരിക്കും അതിനാൽ നമ്മൾക്ക് പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ഈ പ്രദേശം കേടുകൂടാതെയിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു വിൻഡോ സൃഷ്ടിക്കാൻ കഴിയില്ല അതിനാൽ ഇവിടെ നമുക്ക് പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല നമുക്ക് നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റ് ഉപയോഗിക്കാം കാരണം തുറന്നുകാണിക്കാത്ത ഏത് പ്രദേശവും പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റിൽ ദുർബലമായിരിക്കും പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റ് ഏരിയയിൽ ശക്തമായി വെളിപ്പെടുത്താത്തപ്പോൾ തുറന്നുകാണിക്കാത്ത നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റ് ഏരിയ ദുർബലമായിരിക്കും SiO2 ൽ ഇതുപോലുള്ള ഒരു വിൻഡോ സൃഷ്ടിക്കുക എന്നതാണ് നമ്മൾക്ക് വേണ്ടത് അതിനാൽ നമുക്ക് പി ടൈപ്പ് മെറ്റീരിയൽ ഡോപ്പ് ചെയ്യാൻ കഴിയുന്നതിനാൽ ഈ പ്രദേശത്ത് പി ടൈപ്പ് മെറ്റീരിയൽ ഡോപ്പ് ചെയ്യാൻ കഴിയും അതിനാൽ ഈ 2 പ്രദേശത്തെ ഫോട്ടോറെസിസ്റ്റിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് മനസിലാക്കാണം അതിനാൽ ഈ രണ്ട് മേഖലകളിലും നമ്മളുടെ ഫോട്ടോറെസിസ്റ്റിനെ പരിരക്ഷിക്കണം മറ്റ് ഏരിയ ഫോട്ടോറെസിസ്റ്റുകളിൽ നിന്ന് നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റ് ശോഭയുള്ളവ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എച്ച് ഔട്ട് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഫീൽഡ് മാസ്ക് ഒരു ശോഭയുള്ള ഫീൽഡ് മാസ്ക് ഉപയോഗിച്ച് ശരിയാക്കേണ്ടത് ഉണ്ട് അൾട്രാവയലറ്റ് എക്സ്പോഷറിനുശേഷം നമ്മൾ ഫോട്ടോറെസിസ്റ്റ് വികസിപ്പിക്കുകയും ഫോട്ടോറെസിസ്റ്റ് വികസിപ്പിച്ചതിന് ശേഷം നമ്മൾ കണ്ടെത്തുകയും ചെയ്യും അൾട്രാവയലറ്റ് എക്സ്പോഷറിന് ശേഷം ഇത് ശോഭയുള്ള ഫീൽഡ് മാസ്കും നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റും ഉള്ളതായി നമ്മൾ കണ്ടെത്തും വെളിപ്പെടുത്താത്ത ഫോട്ടോറിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തും അതിനാൽ എനിക്ക് ഇത് വികസിപ്പിക്കേണ്ടിവന്നു ശരിയാണ് ഫോട്ടോറെസിസ്റ്റ് ദുർബലമായി തുറന്നുകാട്ടപ്പെടാത്തതും വികസിപ്പിച്ചെടുത്ത ഫോട്ടോറെസിസ്റ്റ് തുറന്നുകാട്ടപ്പെടാത്തതും ആണ് അതിനാൽ ഈ പ്രദേശത്തിന് താഴെയുള്ള ഫോട്ടോറെസിസ്റ്റ് അത് തുറന്നുകാട്ടപ്പെടില്ല അത് ദുർബലമാവുകയും പിന്നീട് ഫോട്ടോറെസിസ്റ്റ് ഡവലപ്പറിൽ വികസിക്കുകയും ചെയ്തു ശരിയാണ് അതിനാൽ ഇപ്പോൾ എനിക്ക് ഫോട്ടോഗ്രാഫിസ്റ്റ് ഉണ്ട് അത് നെഗറ്റീവ് SiO2 ആണ് SiO2 അതിനുശേഷം ഞാൻ എച്ച്ച്ച് ചെയ്യും അതിനാൽ ഫോട്ടോറെസിസ്റ്റ് വികസിപ്പിച്ച ശേഷം ഞാൻ ഹാർഡ് ബേക്ക് ചെയ്യും മിനിറ്റിൽ 120 ഡിഗ്രി സെന്റിഗ്രേഡൽ ഹാർഡ് ബേക്കിംഗ് ചെയ്യും ഇത് ഡാറ്റാഷീറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു ഡാറ്റാ ഷീറ്റിൽ ഏത് തരം ക്രമമാണ് ഉപയോഗിക്കുന്നതെന്ന് ഇതിനകം സൂചിപ്പിച്ചിരിക്കുന്നു സോഫ്റ്റ് ബേക്ക് താപനില എന്താണ് ഒരേ രീതിയിൽ ചൂടാക്കാനോ ചുടാനോ എത്ര സമയം വേണം ഹാർഡ് ബേക്ക് താപനില എന്താണ് നമ്മൾ ഒരു പ്രത്യേക ഫോട്ടോറെസിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എല്ലാം എത്ര സമയം ഉണ്ടാക്കണമെന്ന് ഡാറ്റ ഷീറ്റിൽ നൽകിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഡാറ്റ ഷീറ്റ് നോക്കണം അതിനാൽ നമ്മൾ പിആർ വികസിപ്പിക്കുകയും ഹാർഡ് ബേക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പ്രത്യേക വേഫർ ലഭിക്കും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് SiO2 etchant ൽ ഈ വേഫർ മുക്കേണ്ടതാണ് എന്താണ് SiO2 etchant ബഫർ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഓർമിച്ചാൽ SiO2 etchant വളരെ എളുപ്പമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതായത് BHF ലെ H ബഫറിൽ ഞാൻ ഈ വേഫർ മുക്കിയാൽ എന്ത് സംഭവിക്കും എന്റെ പരിരക്ഷിക്കാത്ത ഫോട്ടോറെസിസ്റ്റ് SiO2 കൊത്തിയെടുക്കും നമ്മൾ എളുപ്പത്തിൽ എച്ച്ച്ച് ചെയ്യും ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും എനിക്ക് ഫോട്ടോറെസിസ്റ്റ് നീക്കംചെയ്യണം അതിനാൽ SiO2 കൊത്തിയതിനുശേഷം ഞാൻ ഈ വേഫർ അസെറ്റോണിൽ മുക്കും കാരണം അസെറ്റോൺ എന്നത് പിആർ കുത്തനെ ഉള്ളതാണ് അതിനാൽ നമ്മൾ ഫോട്ടോറെസിസ്റ്റിനെ കുത്തനെയാക്കണം എനിക്ക് എന്താണ് ഉള്ളത് എനിക്ക് ഒരു ജാലകം ഉണ്ട് ശരിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു ജാലകമാണ് ഇപ്പോൾ ഈ വിൻഡോയിലൂടെ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് പി തരം മെറ്റീരിയൽ ഡോപ്പ് ചെയ്യാൻ കഴിയും ശരിയാണ് ഇതാണ് എൻ തരം സിലിക്കൺ അതിനാൽ നമുക്ക് ഇപ്പോൾ ഈ സിലിക്കണിൽ ഒരു പി തരം മെറ്റീരിയൽ ഡോപ്പ് ചെയ്യാൻ കഴിയും SiO2 ഒരു മാസ്കായി പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം കൂടാതെ ഡോപന്റിനെ ഈ പ്രത്യേക പ്രദേശത്ത് പ്രവേശിക്കാൻ നമ്മൾ അനുവദിക്കുകയുമില്ല ശരി SiO2 ഒരു മാസ്കായി പ്രവർത്തിക്കും കൂടാതെ ഡോപന്റിനെ ഈ പ്രത്യേക സബ്സ്ട്രേറ്റിൽ പ്രവേശിക്കാൻ നമ്മൾ അനുവദിക്കുകയുമില്ല അതിനാൽ ഇപ്പോൾ നമുക്ക് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ അയോൺ ഇംപ്ലാന്റേഷൻ ഉപയോഗിച്ച് ശരിയാക്കാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരിക്കൽ പി തരം മെറ്റീരിയൽ ചെയ്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം എനിക്ക് വീണ്ടും ചെയ്യേണ്ടിവന്നു എനിക്ക് ബഫർ ഹൈഡ്രോഫ്ലൂറിക് ആസിഡിൽ അതായത് ബിഎച്ച്എഫിൽ സൂക്ഷിക്കാൻ കഴിയുമെങ്കിലും SiO2 നീക്കം ചെയ്യപ്പെട്ടതായി കാണുന്നു SiO2 നീക്കംചെയ്യുമ്പോൾ നമുക്ക് വേഫർ ലഭിക്കുന്നു അതാണ് നമുക്ക് വേണ്ടത് എൻ ടൈപ്പ് മെറ്റീരിയലിൽ പി ടൈപ്പ് ഡോപ്പിംഗ് എങ്ങനെ നടത്താം അതാണ് അദ്ദേഹം പറയുന്നത് ഡയോഡുകൾ പോലെ തന്നെ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ പ്രത്യേക പി തരം എൻ ടൈപ്പ് അർദ്ധചാലക വസ്തുക്കൾ എന്നിവയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എൻ ടൈപ്പ് ചാനലിനുള്ളിലെ യൂണി ജംഗ്ഷൻ പിഎൻ ജംഗ്ഷൻ അതായത് ഒരൊറ്റ ജംഗ്ഷൻ എക്സ് എന്നത് വൈദ്യുത നിയന്ത്രിത സ്വിച്ച് പോലെയാണ് അതിനാൽ യുജെടി ഒരു ലീനിയർ അല്ലാത്ത ആംപ്ലിഫയറാണ് ഇതിന് കുറഞ്ഞ ചിലവേ ഉള്ളൂ കൂടാതെ ഫ്രീ റണ്ണിംഗ് ഓസിലേറ്ററുകളിൽ സമന്വയിപ്പിക്കുകയോ ട്രിഗർ ഓസിലേറ്ററുകളോ പൾസ് ജനറേഷൻ സർക്യൂട്ടുകളോ ഉപയോഗിച്ച് കുറഞ്ഞതും മിതമായതുമായ ആവൃത്തികളിൽ ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നു ഇത് ഒന്നുമില്ല പക്ഷേ ഇത് ഒരു പിഎൻ ഡയോഡ് പോലെ തോന്നുന്നു അല്ലേ ഇവിടെ ബി 2 കാരണം ഒരു റെസിസ്റ്ററും പിന്നെ ബി 1 കാരണം റെസിസ്റ്ററും ഉണ്ട് ശരിയാണ് ഇപ്പോൾ വോൾട്ടേജിലുടനീളം നിങ്ങൾക്ക് ബേസ് 1 ഉണ്ട് നിങ്ങൾക്ക് ബേസ് 2 ഉണ്ട് നിങ്ങൾക്ക് ഒരു എമിറ്റർ ഉണ്ട് എമിറ്റർ ഒന്നുമല്ല പക്ഷേ നിങ്ങളുടെ പി എൻ ടൈപ്പിനുള്ളിൽ ആണ് അതിനാൽ യുജെടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ മനസിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ യുജെടി ബേസ് ഓസിലേറ്റർ രൂപകൽപ്പന ചെയ്യാമെന്ന് മനസിലാക്കാൻ കഴിയും ഫ്രീ റണ്ണിംഗ് ഓസിലേറ്ററുകളായി ഇത് ഉപയോഗിക്കുന്നതായി നിങ്ങൾ കാണുന്നു പൾസ് ജനറേഷനിലും ഇത് സമന്വയിപ്പിച്ച അല്ലെങ്കിൽ ട്രിഗർ ഓസിലേറ്ററുകളായി ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് നമുക്ക് നോക്കാം അത് പ്രവർത്തിക്കുന്നു അതിനാൽ റെസിസ്റ്റൻസ് R1 R2 എന്നിവ ബയാസ് റെസിസ്റ്ററുകളാണ് അവ ഇന്റർ ബേസ് റെസിസ്റ്റൻസ് RB 1 RB 2 എന്നിവയേക്കാൾ കുറവാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രതിരോധം RB1 RB2 എന്നിവ ഇന്റർ ബേസ് റെസിസ്റ്റൻസിനേക്കാൾ കുറവാണ് ഇവിടെയുള്ള റെസിസ്റ്റൻസ് R3 ഉം ഓസിലേറ്റിംഗ് നിരക്കിനടുത്തുള്ള കപ്പാസിറ്റൻസ് C1 ഉം R ഉം C ഉം ഇൻസുലേറ്റിംഗ് നിരക്ക് തീരുമാനിക്കും നമ്മൾ തുടക്കത്തിൽ ഒരു വോൾട്ടേജ് Vs പ്രയോഗിക്കുമ്പോൾ ഈ ടെർമിനലിലുടനീളം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓഫാണ് കപ്പാസിറ്റർ C1 പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു ശരിയാണ് നിങ്ങൾ ഈ വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ പ്രവർത്തിക്കാനാവില്ല അതിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല അത് ഓഫായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും C1 പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു പക്ഷേ റെസിസ്റ്ററുകളായ R3 എക്സ്പോണൻസിയായി ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു R3 വഴിയുള്ള എക്സ്പോണൻസലായി ഇത് ആരംഭിക്കുന്നു യുജെടിയുടെ എമിറ്റർ കപ്പാസിറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ചാർജിംഗ് വോൾട്ടേജ് Vc കപ്പാസിറ്റർ കടക്കുകയും ഡയോഡ് വോൾട്ടേജ് ഡ്രോപ്പിനേക്കാൾ വലുതാവുകയും ചെയ്യുമ്പോൾ യുജെടിയുടെ എമിറ്റർ കപ്പാസിറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇതാണ് പിഎൻ ജംഗ്ഷൻ ഡയോഡ് ശരി നമ്മൾ ശരിയായി കണ്ടു അതിനാൽ ഈ കപ്പാസിറ്റർ Vc1 യിലുടനീളമുള്ള വോൾട്ടേജ് ഡയോഡ് വോൾട്ടേജ് ഡ്രോപ്പിനേക്കാൾ വലുതായിത്തീരുമ്പോൾ പിഎൻ ജംഗ്ഷൻ സാധാരണ ഡയോഡായി പ്രവർത്തിക്കുകയും യുജെടിയെ ചാലകത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കപ്പാസിറ്റർ R3 റെസിസ്റ്ററുകളിലൂടെ ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കപ്പാസിറ്റർ വോൾട്ടേജ് മൂല്യങ്ങൾ പിഎൻ ജംഗ്ഷൻ ഡയോഡ് വോൾട്ട് ഡ്രോപ്പിനേക്കാൾ വർദ്ധിക്കുന്നു തുടർന്ന് യുജെടി ട്രാൻസിസ്റ്റർ ആരംഭിക്കും യുജെടി ട്രാൻസിസ്റ്റർ ഈ അവസ്ഥയിൽ സ്ഥിതിചെയ്യുന്നു ഈ ഘട്ടത്തിൽ എമിറ്റർ ടു B1 ഇംപെഡൻസ് തകരുന്നു R1 വഴി എമിറ്റർ കറന്റ് ലോഡുചെയ്യുന്നതിനായി എമിറ്റർ കുറഞ്ഞ ഇംപെഡൻസ് സാച്ചുറേഷൻ ഘട്ടത്തിലേക്ക് പോകുന്നു അതിനാൽ ബി 1 ഇംപെഡൻസ് തകർച്ചയിലേക്ക് പോകുകയും എമിറ്റർ കുറഞ്ഞ ഇംപെഡൻസ് ഘട്ടത്തിലേക്ക് പോകുകയും ചെയ്യും ശരിയാണ് അത് conduct ചെയ്യും അതിനാൽ R1 ന്റെ ഓമിക് മൂല്യം വളരെ കുറവായതിനാൽ UJT വഴി കപ്പാസിറ്റർ അതിവേഗം ഡിസ്ചാർജ് ചെയ്യും അതിനാൽ R1 ൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്ന വോൾട്ടേജ് വർദ്ധിക്കുന്നു അത് നടത്തുമ്പോൾ കപ്പാസിറ്റർ R1 വലതുവശത്തേക്ക് വേഗത്തിൽ ഡിസ്ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള ഏറ്റവും അടുത്ത ഭാഗമാണ് കപ്പാസിറ്ററിനായി ഡിസ്ചാർജ് ചെയ്യാനുള്ള പാത ഇത് conduct ചെയ്യില്ലെങ്കിൽ കപ്പാസിറ്റർന് ഇതിലൂടെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ഇത് ഈ ഭാഗത്തിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നു തുടർന്ന് R1 ന് കുറുകെയുള്ള റെസിസ്റ്ററിൽ ശരി ഇവിടെ ഞാൻ R1 ന് കുറുകെ വോൾട്ടേജ് അളക്കുകയാണെങ്കിൽ എന്ത് കണ്ടെത്തും ഇത് വേഗത്തിൽ ഉയർത്തുന്ന സ്പൈക്കിന് കാരണമാകുമെന്ന് ഞാൻ കണ്ടെത്തി അതിവേഗം ഉയരുന്ന സ്പൈക്ക് നിങ്ങൾ കാണുന്നു ഇതും യുജെടിയിലൂടെ വേഗത്തിൽ സംഭവിക്കുന്നതിനാൽ റെസിസ്റ്റർ R3 വഴി ചാർജ് ചെയ്യുന്നു ശരിയാണ് ഈ ഡിസ്ചാർജ് സമയം യുജെടിയുടെ കുറഞ്ഞ പ്രതിരോധത്തിലൂടെ കപ്പാസിറ്റർ ഡിസ്ചാർജുകളുടെ ചാർജിംഗ് സമയത്തേക്കാൾ കുറവല്ല ഇപ്പോൾ കട്ട് ഓഫ് മുറിക്കുക അതിനാൽ യുജെടി മുറിച്ചു എന്താണ് ഛേദിക്കപ്പെട്ടത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓണാക്കാൻ ആവശ്യമായ വോൾട്ടേജ് ഇതുവരെ ലഭിക്കാത്ത മേഖലയാണിത് ശരി എമിറ്റർ കറന്റ് ഗ്രാഫിനെതിരെയുള്ള എമിറ്റർ വോൾട്ടേജ് നിങ്ങൾ ഇവിടെ കാണുന്നു എന്താണ് ഒരു ട്രിഗർ മേഖല വോൾട്ടേജിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്താണ് എന്താണ് ഒരു കട്ട്ഓഫ് മേഖല എന്താണ് അതിൻറെ മൂല്യം സാച്ചുറേഷൻ മേഖലയിൽ വളരെ പോയിന്റുള്ള നെഗറ്റീവ് റെസിസ്റ്റൻസ് മേഖല എന്താണ് നിങ്ങൾ എല്ലാം ശരിയായി മനസിലാക്കേണ്ടതുണ്ട് അതിനാൽ തിരികെ പോയി യുജെടി ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിശദമായി കാണുക വോൾട്ടേജ് ഇതുവരെ ട്രിഗറിംഗ് വോൾട്ടേജിൽ എത്തിയിട്ടില്ല അതിനാൽ ഒരു ട്രാൻസിസ്റ്റർ ഇത് ഓണാക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്ന ഈ കട്ട് ഓഫ് പ്രദേശം യൂണി ജംഗ്ഷൻ പ്രദേശത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല നെഗറ്റീവ് റെസിസ്റ്റൻസ് മേഖല എന്നാൽ യുജെടിക്ക് ഓണാക്കാൻ ആവശ്യമായ വോൾട്ടേജ് ഇതുവരെ ലഭിക്കാത്തതും ട്രാൻസിസ്റ്റർ ഓണാക്കാതിരിക്കാൻ ഈ വോൾട്ടേജ് ട്രിഗറിംഗ് വോൾട്ടേജിൽ എത്തിയിട്ടില്ലാത്തതുമായ മേഖലയാണിത് നെഗറ്റീവ് റെസിസ്റ്റൻസ് മേഖല എന്തുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് മേഖല എന്ന് വിളിക്കുന്നത് നിങ്ങൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് മേഖല കാണുന്നു ശരിയാണ് കാരണം നിങ്ങൾ ഒരു വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യണം പ്രത്യേക പ്രതിരോധ മൂല്യം അല്ലേ വോൾട്ടേജ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ curve എന്തായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവ വിശാലമാണെങ്കിൽ ഇത് നെഗറ്റീവ് പ്രതിരോധമാണ് കാരണം അതിനുശേഷം ട്രാൻസിസ്റ്റർ ട്രിഗറിംഗ് വോൾട്ടേജ് V triggerൽ എത്തി കുറച്ച് സമയത്തിന് ശേഷം ട്രാൻസിസ്റ്റർ ഓണാക്കുമ്പോൾ പ്രയോഗിച്ച വോൾട്ടേജ് എമിറ്റർ ലോഡിലേക്ക് വർദ്ധിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്താൽ അത് ഇവിടെ എത്തുന്ന വോൾട്ടേജ് V peak എടുക്കും അതിനാൽ തുടക്കത്തിൽ ഇത് ഓഫ് ചെയ്താൽ ഈ പ്രദേശം കട്ട് ഓഫ് ചെയ്ത പ്രദേശത്തെ പ്രതിരോധിക്കുമ്പോൾ സ്വീകരിച്ച വോൾട്ടേജ് ട്രിഗറിംഗ് വോൾട്ടേജിൽ എത്തിയിട്ടില്ല ട്രാൻസിസ്റ്റർ ഇപ്പോൾ on ആയാൽ ഈ ട്രിഗറിംഗ് വോൾട്ടേജ് on ആവും അതായത് ഇവിടെയുള്ള ഈ വോൾട്ടേജ് ഇപ്പോഴും വർദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം അത് ഓണാകും അത് V peakലെത്തും ഇപ്പോൾ അത് V peakൽ നിന്ന് വാലി പോയിന്റിലേക്ക് നയിക്കും എങ്കിൽ ഇവിടെ നിന്ന് മുകളിലുള്ള വാലി പോയിന്റിലേക്ക് ശരിയായി പ്രയോഗിച്ച വോൾട്ടേജ് കുറയുന്നു അതേസമയം നിലവിലെ V വർദ്ധിക്കുന്നത് IRക്ക് തുല്യമാണ് ശരിയാണ് ഞാൻ എന്റെ വോൾട്ടേജ് drop ചെയ്യുകയാണെങ്കിൽ എന്റെ കറന്റ് ഉപേക്ഷിക്കുന്നത് തുടരുകയും വേണം പക്ഷേ ഞാൻ കാണുന്നത് ഈ പ്രത്യേക പ്രദേശത്തെ ഈ പ്രത്യേക ഘട്ടത്തിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രമാണ് ഞാൻ കാണുന്നത് Vpeak മുതൽ വാലി പോയിന്റ് വരെ പ്രയോഗിച്ച വോൾട്ടേജ് കുറയുന്നു പക്ഷേ കറന്റ് കൂടുന്നു അതിനർത്ഥം പ്രതിരോധം കുറയുന്നത് പോലെ അതായത് ഇത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസാണ് കറന്റ് വർദ്ധിക്കുന്നു പക്ഷേ വോൾട്ടേജ് കുറയുന്നു അതിനാലാണ് ഇതിനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് അതിനാൽ ഇതിനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം എളുപ്പമല്ലെങ്കിൽ യുജെടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ ശരിയായി മനസിലാക്കണം അപ്പോൾ അത് എളുപ്പമാകും ഞാൻ എളുപ്പം പറയുമ്പോഴെല്ലാം നിങ്ങൾ ചില ഗൃഹപാഠങ്ങൾ ചെയ്തുവെന്നും യുജെടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമെന്നും ഞാൻ കരുതുന്നു ഇവ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന ഉപകരണങ്ങളാണ് അതിനാൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് മേഖലയ്ക്ക് ശേഷം കറന്റ് വർദ്ധിച്ചതായി കാണാം എമിറ്ററിലേക്ക് പ്രയോഗിച്ച വോൾട്ടേജ് ഇപ്പോഴും വൈദ്യുതധാര വർദ്ധിപ്പിക്കുകയും വോൾട്ടേജ് ഉയരുകയും ചെയ്യുന്ന മേഖലയാണിത് ഇപ്പോൾ അത് വീണ്ടും ഉയരാൻ തുടങ്ങും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ യുജെടി ഓസിലേറ്ററിനായി എനിക്ക് ഇൻസുലേറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട് അതിനാൽ യുജെടി ഓസിലേറ്റർ എങ്ങനെ പ്രവർത്തിക്കും ഇപ്പോൾ നമ്മൾ കണ്ടത് നമുക്ക് പലതരം ഓസിലേറ്ററുകളുണ്ടാകാം ഇപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നതിൽ നമ്മൾ കൂടുതലും കണ്ടത് ഓസിലേറ്റർ ആണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററും കണ്ടു ഒരു യുജെടി ഓസിലേറ്ററും കണ്ടു ശരിയാണ് പൊതുവേ ഓസിലേറ്ററുകൾ എങ്ങനെ ശരിയായി പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾക്ക് ഒരു ധാരണയുണ്ട് അതിനാൽ അടുത്ത മൊഡ്യൂളിൽ എന്താണ് നോയ്സ് എന്ന് നമുക്ക് നോക്കാം വിവിധ തരത്തിലുള്ള നോയ്സുകൾ ഏതാണ് അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നിവ പഠിച്ച് അടുത്ത ഭാഗത്തേയ്ക്ക് നീങ്ങും അതിനാൽ അടുത്ത മൊഡ്യൂളിൽ നമ്മൾ കാണും ഈ സമയം കൊണ്ട് ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം കാണിച്ചു യുജെടി ഓസിലേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കാം നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഓർമിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു ഉപകരണം എങ്ങനെ നിർമ്മിക്കാനാകും ഇപ്പോൾ നിങ്ങൾക്ക് മോസ്ഫെറ്റിനായുള്ള പ്രോസസ് ഫ്ലോ മനസിലാക്കാം അതുപോലെ നമുക്ക് N സർക്യൂട്ടുകളുടെ എണ്ണം പറയാം പ്രക്രിയയുടെ ഒഴുക്ക് ശരിയാണെന്ന് നമ്മൾക്ക് അറിയാമെങ്കിൽ നമ്മൾക്ക് നിർമ്മിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും വിഷമിക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ സംശയങ്ങൾക്ക് ഉത്തരം നൽകും അതിനാൽ അടുത്ത ക്ലാസ്സിൽ ശബ്ദം എന്താണെന്നും നമുക്ക് നോക്കാം അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണും